ഈ യൂണിറ്റിൽ നാം നോക്കുക സർക്യൂട് അനാലിസിസ് ചെയ്യുവാൻ ഉപയോഗപ്രദമായ ചില തിയറം ആണ് അത് ചില കേസുകളിൽ സർക്യൂട് അനാലിസിസ് വളരെ സൌകര്യപ്രദമാക്കുന്നു അതിൽ ചില തിയറം ഒരു വലിയ സർക്യൂട്ടിനെ ചെറുതാക്കാൻ സഹായിക്കുന്നു നാം മുന്നോട്ടു പോകുമ്പോൾ ഇതെല്ലാം നോക്കുന്നതാണ് ആദ്യം നാം നോക്കാൻ പോകുന്നത് ഒരുതവണ നോക്കിയതാണ് അതാണ് സൂപ്പർ പൊസിഷൻ തിയറം നാം ആദ്യം പറഞ്ഞു നമുക്ക് ഇൻഡിപെൻഡന്റ് സോഴ്സ് പിന്നെ ലീനിയർ കംപോണന്റുകളും ഉള്ള സർക്യൂട്ടിൽ ഓരോ ഇൻഡിപെൻഡന്റ് സോഴ്സ് ഓരോന്നായി എടുത്തു അതായതു ഒരെണ്ണം മാത്രം നിലനിർത്തി ബാക്കി ഉള്ള സോഴ്സുകൾ 0 ആക്കി ഉത്തരം കണ്ടെത്താം നമുക്ക് വേണ്ട അവസാന ഉത്തരം എന്നത് ഇവയോരോന്നും തമ്മിൽ കൂട്ടുന്നതാണ് നാം ചെയ്ത നോഡൽ അനാലിസിസ് പിന്നെ മെഷ് അനാലിസിസ് എന്നിവ ഉപയോഗിച്ച് നമുക്ക് ഇത് തെളിയിക്കാനാകും ഞാൻ ഈ സർക്യൂട് എടുക്കുന്നു ഇത് നാം നോഡൽ അനാലിസിസ് ചെയ്തപ്പോൾ ഉപയോഗിച്ചത് തന്നെ ആണ് ഇതിനു രണ്ടു കറന്റ് സോഴ്സുകൾ ഉണ്ട് പിന്നെ ഒരു വോൾടേജ് സോഴ്സ് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇതിനു ഉത്തരം കണ്ടെത്തണമെങ്കിൽ തിരിച്ചു പോയി നോഡൽ അനാലിസിസ് ചെയ്യാനാകും നാം ആദ്യമേ കണ്ടെത്തിയ അതെ ഉത്തരം ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നു ഇവിടെ ഉള്ള മൂന്നു സോഴ്സ് എന്നത് I1 V0 പിന്നെ I2 ഇവിടെ നാം ഇനി നോഡൽ അനാലിസിസ് ചെയ്യുകയാണേൽ നാം ഈ ഇക്വേഷനുകളിൽ എത്തുന്നതാണ് G മാട്രിക്സ് × നോഡ് വോൾടേജജുകളുടെ അൺ നോൺ വെക്റ്റർ ഇൻഡിപെൻഡന്റ് സോഴ്സുകളുടെ വെക്റ്റർ നാം ഇവിടെ നോഡൽ അനാലിസിസ് ചെയ്യുമ്പോൾ ഇവിടെ I എന്ന് എഴുതിയാലും അതിൽ കറന്റ് വോൾടേജ് എന്നിവ രണ്ടും ഉണ്ട് ഞാൻ ഈ കറന്റ് ആണ് ഇവിടെ ഉദാഹരണം ആയി എടുക്കുന്നത് അപ്പോൾ ഇക്വേഷൻ എന്നത് G × അൺ നോൺ വെക്റ്റർ സോഴ്സ് വെക്റ്റർ നമുക്ക് വ്യക്തമായും ഈ നോഡ് വോൾട്ടേജുകളുടെ അൺ നോൺ വെക്റ്റർ എന്നത് G യുടെ ഇൻവെർസ് ഉപയോഗിച്ച് കണ്ടെത്താം ഞാൻ അത് എഴുതാൻ പോകുന്നു ഈ പ്രത്യേക കേസിൽ ഈ സോഴ്സ് വെക്റ്റർ എടുക്കുന്നു ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് വേണ്ട നോഡൽ വോൾടേജ് കണ്ടെത്താനാകും ഞാൻ സോഴ്സ് വെക്റ്റർ എന്നത് ഈ പ്രത്യേക രീതിയിൽ ആണ് എഴുതുക അത് I 1 0 0 0 V 0 0 0 0 I2 എന്നാണ് എഴുതുക അത് ഈ G ഇൻവെർസ് x ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉളള തുക നാം ആ തുക എടുത്തു പിന്നെ ഇവയെ G ഇൻവെർസ് വച്ച് ഗുണിച്ചു അത് G ഇൻവെർസ് x സോഴ്സ് വെക്റ്റർ ഞാൻ ഈ ഓരോ ടെം ആയി എടുത്തു വിശദീകരിക്കുന്നു നോഡ് വോൾട്ടേജിന്റെ പൂർണമായ ഉത്തരം എന്നത് V ആണ് ഈ മൂന്നെണ്ണത്തിന്റെ തുക ഈ ഓരോ ടെം ആയി നാം നോക്കിയാൽ അത് G ഇൻവെർസ് × I 1 0 0 എന്നതാണ് ഉത്തരം ലഭിക്കുന്നത് ഈ I1 0 അല്ലാതാകുമ്പോളാണ് പിന്നെ V0 I2 എന്നിവ 0 ആകുമ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇത് ഈ കറന്റ് സോഴ്സ് I1 മാത്രം ആക്റ്റീവ് ആണ് മറ്റുള്ളവയൊന്നും ആക്റ്റീവ് അല്ല അതുപോലെ ഈ വോൾടേജ് സോഴ്സ് മാത്രം ഉള്ളപ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഇത് അപ്പോൾ I1 0 പിന്നെ I2 0 അതുപോലെ തന്നെ I1 0 പിന്നെ V0 0 ഇതിൽ I2 മാത്രം ആക്റ്റീവ് ആണ് അപ്പോൾ I1 V0 പിന്നെ I2 ഇവയെല്ലാം തന്നെ ആക്റ്റീവ് ആയുള്ള പൂർണമായ ഉത്തരം എന്നത് ഈ I1 V0 പിന്നെ I2 മാത്രം ആക്റ്റീവ് ആക്കി നമുക്ക് ലഭിച്ച ഉത്തരമാണ് ഇത് തന്നെ ആണ് സൂപ്പർ പൊസിഷൻ തിയറം ഇതാണ് എല്ലാ സോഴ്സുകളും ആക്റ്റീവ് ആയ ഉത്തരം അത് മറ്റൊന്നുമല്ല ഇത് എന്നത് I1 മാത്രം ആക്റ്റീവ് ആയ ഉത്തരം പിന്നെ ഇത് V0 മാത്രം ആക്റ്റീവ് ആയ ഉത്തരം അത് പോലെ ഇത് I2 മാത്രം ആക്റ്റീവ് ആയ ഉത്തരം അവയെല്ലാം തമ്മിൽ കൂട്ടുന്നതാണ് നമുക്ക് വേണ്ട യഥാർത്ഥ ഉത്തരം ഈ സൂപ്പർ പൊസിഷൻ തിയറം എന്നത് ഇക്വേഷന്റെ ലീനിയറിറ്റി മൂലം ലഭിച്ചതാണ് ഈ കേസിൽ നാം മാട്രിക്സ് എന്നത് ഓരോ സോഴ്സ് വെക്റ്റർ മാത്രമായി ഗുണിച്ചു അവയെല്ലാം തമ്മിൽ കൂട്ടിയതിനു തുല്യമാണ് ഇതിൽ അത്യാവശ്യമായും വേണ്ടത് ഈ ഇക്വേഷനുകൾ എല്ലാം ലീനിയർ ആയിരിക്കണം എന്നതാണ് എന്തെന്നാൽ മൂന്ന് സോഴ്സുകൾ ഉള്ള സർക്യൂട്ടിനെ നിങ്ങൾ ഓരോ സോഴ്സ് മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ ആണ് അപഗ്രഥിച്ചതു അവസാനം അവ തമ്മിൽ കൂട്ടി മൂന്നു സോഴ്സുകൾ ഉള്ള സർക്യൂട് ഉപയോഗിച്ച് ഞാൻ ഇത് കാണിച്ചു തന്നു ഇതിൽ കാണാം കട്ടിയായ സോഴ്സ് വെക്റ്റർ ആണ് നിങ്ങൾക്കുള്ളത് നാം ഇപ്പോഴും പ്രതിനിതീകരിച്ചതു സോഴ്സ് വെക്റ്ററുകളുടെ തുക ആണ് ഓരോ സോഴ്സ് വെക്റ്റർ എടുത്തപ്പോഴും അത് മാത്രമായിരുന്നു 0 അല്ലാത്തത് അപ്പോഴും അതെ ഉത്തരം തന്നെ ലഭിക്കും പൊതുവായ രീതിയിൽ ഇത് നിങ്ങൾക്കു തെളിയിക്കാനാകും പക്ഷെ ഞാൻ പറയുന്നത് ഈ രീതി എല്ലാ സർക്യൂട്ടിനും നമുക്ക് പ്രയോഗിക്കാനാകും ഇതേ തെളിവ് തന്നെ മെഷ് അനാലിസിസ് ഉപയോഗിച്ചും നമുക്ക് ചെയ്യാനാകും ഇവിടെ അപഗ്രഥന രീതി അല്ല ലീനിയറിറ്റി ആണ് പ്രധാനം നമുക്ക് ഇൻഡിപെൻഡന്റ് സോഴ്സുകളും ലീനിയർ കംപോണന്റുകളും ആണ് ഉള്ളതെങ്കിൽ നമുക്ക് എപ്പോഴും ലീനിയർ ആയ ടെം എന്നത് ഇൻഡിപെൻഡന്റ് സോഴ്സുകളുടെ മിശ്രണം ആയി എഴുതാനാകും ഇതാണ് സൂപ്പർപോസിഷൻ എന്ന സവിശേഷത നാം കണ്ടു മൂന്ന് ഇൻഡിപെൻഡന്റ് സോഴ്സുകൾ കരണമായുള്ള നോഡ് വോൾടേജ് വെക്റ്റർ എന്നത് ആദ്യം I1 മാത്രം ആക്റ്റീവ് മറ്റുള്ളവ 0 പിന്നെ V0 മാത്രം ആക്റ്റീവ് പിന്നെ മറ്റു രണ്ടെണ്ണം 0 അവസാനം I2 മാത്രം ഇതാണ് സൂപ്പർ പൊസിഷൻ തിയറം ഇത് തന്നെ ആകണമെന്നില്ല പൊതുവെ എത്ര സോഴ്സുകൾ ഉള്ള സർക്യൂട് ആണെങ്കിലും ഇത് പ്രഗോഗിക്കാനാകും പിന്നെ നോഡൽ വോൾടേജ് മാത്രമല്ല ഏതു വോൾടേജ് ആണെങ്കിലും കറന്റ് ആണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം ഇതാണ് നോഡ് വോൾടേജ് വെക്റ്റർ നമുക്ക് ഇവിടെ വോൾടേജ് ആണെങ്കിലും കറന്റ് ആണെങ്കിലും സൂപ്പർപോസ് ചെയ്യാനാകും അതും സാധ്യമായ ഒരു തെളിവാണ് എന്തെന്നാൽ ലീനിയർ ഇക്വേഷനുകൾക്കു ഇത് നാം പലരീതിയിൽ തെളിയിക്കാനാകും ഇവിടെ പ്രതിപാദിക്കാനാഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഈ ഓരോ ഉത്തരവും നോക്കിയാൽ മനസ്സിലാകും ഇതിൽ 3 നമ്പറുകൾ ഉള്ള വെക്റ്റർ ആണ് ഞാൻ ഈ G ഇൻവെർസ് നു പൊതുവായ ഒരു രൂപം നൽകാനാഗ്രഹിക്കുന്നു ഞാൻ ഇവിടെ r 1 1 r 1 2 r 1 3 r 2 1 r 2 2 r 2 3 r 3 1 r 3 2 r 3 3 എന്നിങ്ങനെ ഇവയെ രേഖപ്പെടുത്തുന്നു ഇനി നാം G ഇൻവെർസ് × I 1 0 0 എന്നത് കണക്കു കൂട്ടുന്നു നാം ആദ്യ കോളത്തിലെ നമ്പറുകൾ എടുക്കുന്നു അത് r 1 1 I 1 r 2 1 I 1 r 3 1 I 1 എന്നതാണ് അപ്പോൾ I1 മാത്രം കാരണമുണ്ടാകുന്ന ഉത്തരം എന്നത് ഇതാണ് ഞാൻ ലളിതമായി പറയുകയാണേൽ ഇത് I1 നു ആനുപാതികമാണ് നിങ്ങൾക്കു ആകെ ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സ് മാത്രമാണ് ഉള്ളതെങ്കിൽ ഉത്തരം എവിടെയാണെങ്കിലും ആ സോഴ്സിന് ആനുപാതികമായിരിക്കും ഇത് മൂന്നു വോൾട്ടേജുകൾ ഉള്ള വെക്റ്റർ ആണ് അവ V1 V2 V3 എന്നിവ ആണ് അപ്പോൾ ഈ V1 എന്നത് I1 നു ആനുപാതികമാണ് അതുപോലെ V2 V3 എന്നിവയും അങ്ങനെ തന്നെ ആണ് ഇവിടെ I1 മാത്രമുള്ളപ്പോൾ അപ്പോൾ ആകെ ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സ് മാത്രമാണ് ഉള്ളതെങ്കിൽ ഉത്തരം എവിടെയാണെങ്കിലും ആ സോഴ്സിന് ആനുപാതികമായിരിക്കും അതുപോലെ V0 മാത്രമാണെങ്കിൽ ഉത്തരം ആ V0 ക്കു ആനുപാതികമായിരിക്കും അവസാനം I2 മാത്രമായി എടുക്കുമ്പോൾ അതിനു ആനുപാതികമായിരിക്കും ഇത് V0 ക്കും പിന്നെ ഇത് I2 നും ആനുപാതികമായിരിക്കും ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ലീനിയർ സർക്യൂട്ടിൽ ആകെ ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സ് മാത്രമാണ് ഉള്ളതെങ്കിൽ ഈ ഇൻഡിപെൻഡന്റ് സോഴ്സ് ഒഴികെ ബാക്കി എല്ലാം ലീനിയർ ആയിരിക്കും അവ റെസിസ്റ്റർ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇണ്ടക്ടർ എന്നിവ ആയിരിക്കും ഇവ ലീനിയർ ആണ് പക്ഷെ ഉത്തരത്തിൽ വ്യത്യാസമുണ്ടാകാം അവ നാം പരിഗണിക്കേണ്ടതുണ്ട് അതായത് ഒറ്റ ഇൻഡിപെൻഡന്റ് സോഴ്സ് പിന്നെ ലീനിയർ കംപോണന്റുകൾ അവയുടെ റെസ്പോൺസ് ഈ റെസ്പോൺസ് എന്നത് കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് വോൾടേജ് അല്ലെങ്കിൽ കറന്റ് അപ്പോൾ ഈ റെസ്പോൺസ് എന്നത് സോഴ്സിന് ആനുപാതികമാണ് നിങ്ങൾക്കു ഒന്നിലധികം സോഴ്സുകൾ ഉണ്ടെങ്കിൽ റെസ്പോൺസ് എന്നത് വോൾടേജ് ആണെങ്കിലും കറന്റ് ആണെങ്കിലും അത് സോഴ്സുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആണ് എന്ന് പറയാം അത് V1 എന്നതിന് r 1 1 I1 r12 V0 r13 I2 ആണ് നാം നോക്കേണ്ടത് ഇത് I1 V0 പിന്നെ I2 എന്നിവയുടെ ലീനിയർ കോമ്പിനേഷൻ ആണ് V0 പിന്നെ I2 എന്നിവക്ക് ആനുപാതിക കോൺസ്റ്റന്റ് എന്നത് വ്യത്യാസപ്പെട്ടിരിക്കും ഇനി നാം വോൾടേജ് V2 എടുക്കുന്നു അത് r21 I1 r22 V0 r23 I2 എന്നതാണ് ഇത് നിങ്ങൾ വീണ്ടും ഓർക്കേണ്ട കാര്യമാണ് ഇതും അതുപോലെ I1 V0 പിന്നെ I2 എന്നിവയുടെ ലീനിയർ കോമ്പിനേഷൻ ആണ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നത് നിങ്ങൾക്കു ഒന്നിലധികം സോഴ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കു വേണ്ട വോൾടേജ് അല്ലെങ്കിൽ കറന്റ് എന്നത് അവയുടെ എല്ലാം ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും ഇത് പല സാഹചര്യങ്ങളിലും പ്രയോജനകരമാണ്